ദുരിത മോചനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും കോഴ്സിലേക്ക് സ്വാഗതം ഞാൻ റാം സതീഷ് റൂർകീ യിൽ ഡിപ്പാർട്മെന്റ് ഓഫ് ആർക്കിടെക്ച്ചർ ആൻഡ് പ്ലാനിങ് ൽഅസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോവുന്നത് ഇന്ത്യ യിലെ താൽക്കാലിക ഷെൽട്ടർ നിർമാണത്തെ കുറിച്ചാണ് വൈവിധ്യമാർന്ന ഉദാഹരണങ്ങളും ഈ 3 കേസ് പഠനങ്ങളുമായുള്ള എന്റെ വ്യക്തിപരമായ ഇടപെടലുകളും ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം 2002 ൽ തുടങ്ങിയ ഗുജറാത്ത് ഭൂകമ്പത്തെ കുറിച്ച് ചർച്ച ചെയ്യാം എന്നിട്ട് 2004 ലെ സുനാമി റിക്കവറി പ്രോഗ്രാമിനെ കുറിച്ചും2005 ൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീറിലെ പേവാകീയിൽ ഉണ്ടായ ഭൂകമ്പത്തെ കുറിച്ചും നോക്കാം ഇതൊക്കെയാണ് എന്റെ വ്യക്തിപരമായ ഇടപെടലുകളിൽ നിന്നുംപഠനത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ 2000 ത്തിന്റെ തുടക്കത്തിൽ അതായത് 2002 ൽ മുഴുവൻ ദുരന്തവും ഗുജറാത്ത് ഭൂകമ്പത്തിൽ സംഭവിച്ചപ്പോൾ കൂടുതൽ ബാധിച്ചത് കച്ച് എന്ന ജില്ലയെ ആണ് 5 വലിയ ഭൂകമ്പങ്ങൾ ആണ് അവിടെ ഉണ്ടായത് നഗര തലത്തിലും ഗ്രാമ തലത്തിലും വലിയ നാശനഷ്ടങ്ങൾ ആണ് അത് ഉണ്ടാക്കിയത് ഇത് പുനർനിർമ്മിച്ച വില്ലേജുകളുടെ രേഖചിത്രങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതായത് GSDMP വികസിപ്പിച്ചെടുത്ത കച്ച് ജില്ലയിലെ പുനർനിർമ്മിച്ച വില്ലേജുകളുടെ മാപ് ഗുജറാത്ത് സംസ്ഥാനം യഥാർത്ഥത്തിൽ സമുദായ പങ്കാളിത്തതിന് വളരെ സജീവമായ ഒരു മുൻകൈ എടുത്ത സമയമാണിത് കൂടാതെ ഇതിന് വേണ്ടി ചില മാർഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു എങ്ങനെ പുനർനിർമ്മാണം നടത്താം നിലവിൽ ഉള്ള കെട്ടിടങ്ങളെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നിവയ്ക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ GSDMA റെഗുലേറ്ററി ആസ്പെക്റ്റുകൾ നൽകി അവിടെയാണ് സാങ്കേതിക വശങ്ങളും ചിത്രത്തിൽ വരുന്നത് പല NGO കളും പങ്കാളിത്തത്തോട് കൂടിയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു അതിന് ഒരു ഉദാഹരണം ആയിരുന്നു ഒരു NGO യും കാത്തോലിക് റിലീഫ് സർവീസസ് കൂടിയായ ഹണ്ണാർശാല അങ്ങനെ കുറേ NGO കൾ ഗുജറാത്ത് ഭൂകമ്പത്തിൽ പങ്കാളിത്ത സമീപനങ്ങൾക്ക് വേണ്ടി വാദിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദുരന്തം സംഭവിച്ച കഴിഞ്ഞ ഉടനെയുള്ള അതായത് ഒരു സ്ഥിരമായ പുനർനിർമ്മാണ ഘട്ടത്തിന് മുമ്പുള്ള ദുരിതാശ്വാസ ഘട്ടം കഴിഞ്ഞ ഉടനെയുള്ള സ്ഥിതിയെ കുറിച്ചാണ്ഇവിടെയാണ് ട്രാൻസിഷൻ ഷെൽട്ടർ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ആദ്യം ഒരു താൽക്കാലിക ഷെൽട്ടർ അവർക്കായി നൽകും അവർ എങ്ങനെയാണ് ക്രമേണ ഒരു സ്ഥിരമായ അഭയ പ്രക്രിയയിലേക്ക് പുരോഗമിക്കുന്നത് ഈ ഘട്ടത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുന്നത് കച്ചിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഈ മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വിവിധ NGO കൾ കത്തോലിക് റിലീഫ് സെർവീസസ് ഹണ്ണാർശാല കാരിടാസ് എന്നിവർ നടത്തിയ പുനർനിർമ്മാണ പ്രക്രിയകളും നിങ്ങൾക്ക് ഈ മാപ്പിൽ നിന്നും മനസിലാക്കാം ഗുജറാത്തിൽ സഹായഹസ്തം നൽകാൻ പല NGO കളും എത്തിയിരുന്നു ഇവയൊക്കെയാണ് എന്റെ പ്രാഥമിക പഠനത്തിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ഇതിൽ നിങ്ങൾ കാണുന്നത് RCC നിർമാണത്തിൽ ഉള്ള ആധുനിക വീട് ആണ് ഇഷ്ടിക കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും നിർമിച്ച ഈ പക്കാ വീട് പൂർണമായും തകർന്ന്പോയി അതേസമയം പ്രാദേശിക ഭാഷയിൽ ഭോങ്കാസ് എന്ന് അറിയപ്പെടുന്ന ഈ പരമ്പരാഗത ഷെൽട്ടർ നോക്കുക അവ സാദാരണയായി വൃത്തകൃതിയിൽ ആയിരിക്കും എന്നാൽ ചിലത് ചതുരാകൃതിയിലും ഉണ്ടാവാറുണ്ട് എന്താണ് നിങ്ങൾ കാണുന്നത്ആ പരമ്പരാഗത ഷെൽട്ടറുകൾ ഭൂകമ്പത്തെ അതിജീവിച്ചു അവയുടെ ഘടനാപരമായ രൂപം കൊണ്ടാണ് അതിന് സാധിച്ചത് അവിടെ വാറ്റിൽ ആൻഡ് ഡോബ് നിർമ്മാണം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കളകൾ ചുള്ളിക്കമ്പുകൾ ഒരു മെഷ് പോലെ ഉൾചേർത്തിയതായി കാണാം അത് കൂടുതൽ ബലിഷ്ഠമാക്കാൻ സഹായിക്കുന്നു അത് ഒരു ബൈന്റിങ് ഘടകം ആണ് എന്നിട്ട് ചെളി കൊണ്ട് കവർ ചെയ്യുന്നു ഇത് വൃത്താകൃതിയിൽ ആയിരിക്കും കാരണം ഭൂകമ്പം അതിജീവിക്കാൻ ഏറ്റവും നല്ലത് വൃത്താകൃതി ആണെന്ന് അവർ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ ഫോഴ്സസും മൂലകളിലേക്ക് വരുന്നില്ല നമ്മൾ കണ്ടതിലൊക്കെ വീടുകളുടെ മൂലകളിൽ ആണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് അവിടെ ലോഡ് ആസ്പെക്ടസുംഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ചെറിയ വൃത്താകൃതി ഭൂകമ്പത്തെ അതിജീവിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു ഈ വാട്ടിൽ ആൻഡ് ഡോബ്ലംബവും സാമാന്തരവും ആയ ബാന്റുകൾ പോലെ പ്രവർത്തിക്കുന്നു അത് ശക്തമായ ഭൂകമ്പത്തിൽ നിന്നും വീടുകളെ സംരക്ഷിക്കുന്നു കച്ച് മേഖല ഭൂകമ്പ മേഖലയിലെ അഞ്ചാമത്തെ മേഖല യിൽ ആണ് ഉൾപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നത് ഇതിനെ ഗുജറാത്ത് ഭാഷയിൽ ഓട്ല എന്ന് പറയുന്നു അനൌപചാരികമായി ഉയർത്തിയ ഒരു ചെറിയ തുറന്ന പ്ലാറ്റ്ഫോംഉണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഒരു സെമി ലിവിങ് സ്പേസ് പോലെയാണ് ഇവിടെ അവർ ഭക്ഷണം പാകം ചെയ്യും ചിലർക്ക് ഇതിനോട് ചേർന്ന് പുറത്ത് അടുക്കളയുണ്ട് ചിലർക്ക് വാഷിംഗ് ഏരിയ ഉണ്ട് അവർ ഫാമിലി ക്ലസ്റ്ററിൽ വിശ്വസിക്കുന്നവരാണ് അതായത് 23 ആൾക്കാർ ഒരു ക്ലസ്റ്ററിൽ താമസിക്കുന്നു മുഴുവൻ പ്ലാറ്റ്ഫോമും ഓട്ല അവർ ഉയർത്തി നിർമ്മിക്കുന്നു അത് താഴെ ഉള്ള കുടുംബത്തെ വേർതിരിക്കുന്നു ഇങ്ങനെയാണ് പരമ്പരാഗത രീതി മരുഭൂമിയിലെ കാലാവസ്ഥ കാരണം പല ബോങ്കാകൾക്കും മേൽക്കൂരയുടെ ഭാഗം താഴ്ന്നിട്ടായിരിക്കും ചൂട്കാറ്റിൽ നിന്നും രക്ഷ നേടാൻ ഇത് സഹായിക്കുന്നു വരാന്ത ഈ തരത്തിൽ ആണെന്ന് നിങ്ങൾക്ക് കാണാംഅടുക്കള ചെറുതായി വിഭജിച്ചിരിക്കുന്നു അവിടെ ഒരു കല്ല് കൊണ്ടുള്ള ചുമര് നിങ്ങൾക്ക് കാണാം എങ്ങനെയായിരിക്കും ബോങ്കാസിന്റെ ഉൾവശം ചെറിയ ഉയരമുള്ള മതിൽ ആയിരിക്കുംഅത് കോണാകൃതിയിൽ ആണെങ്കിൽ ചില ബോങ്കകൾക്ക് സെൻട്രൽ പോസ്റ്റ് ഉണ്ടാവും ഈ തരത്തിൽ ഉള്ള ഉയരം കുറഞ്ഞ മേൽക്കൂരയെ സപ്പോർട്ട് ചെയ്യാനാണ് അത് കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് രക്ഷനേടാനും ഇത് സഹായിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇത്പോലുള്ള കുറേ റാക്കുകൾ കാണാം സ്റ്റോറേജ് ബോക്സുകൾ അവിടെ നിറച്ചിരിക്കുന്നതായി കണ്ടല്ലോ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിന് ആവശ്യമായ ഒരു ചെറിയ ഇടം എങ്ങനെ സജ്ജമാക്കാം എന്നതിന്റെ ആശയങ്ങളാണ് ഇത് ഒരു ചെറിയ മതിലിൽ അവരുടെ എല്ലാ അവശ്യസാധങ്ങളും ഉൾക്കൊള്ളിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും വസ്ത്രങ്ങൾ പാത്രങ്ങൾ അങ്ങനെ എല്ലാം ഒരു ചെറിയ സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാമല്ലോ സെമി ഓപ്പൺ ആയിട്ടുള്ള ഔട്ട്ഡോർ കുളിമുറികൾ ആണ് അവിടെ ഉള്ളത് ഭൂജ് ന് അടുത്തുള്ള പക്കായി വില്ലേജിലാണ് ഇത് വീണ്ടും കുറച്ചു ഉയരത്തിൽ കെട്ടിയ പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ കാണുന്നത് അതായത് 1 ഫീറ്റ് 6 ഇഞ്ച് ഉയരം ഉണ്ട് ചെറിയ ഒരു വാണിജ്യ സ്ഥാപനത്തിന് വേണ്ടി നിർമ്മിച്ച മരം കൊണ്ടുള്ള ഒരു നിർമ്മാണം ഉണ്ട് അത് ആ വില്ലേജിന്റെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വില്ലേജുകളുടെ പ്രാദേശിക ആവശ്യങ്ങൾക്കായി ചിതറികിടക്കുന്നു അങ്ങനെ ആണ് പാറ്റേൺ കാണുന്നത് ഈ പ്രത്യേക ദുരന്തത്തിൽ കുറേ സാമുദായിക കെട്ടിടങ്ങൾ തകർന്നു ചരിത്ര പ്രാധാന്യം ഉള്ള കെട്ടിടങ്ങളും പൊതു കെട്ടിടങ്ങളും തകർന്നു തരിപ്പണം ആയി ഇതാണ് ഒരു ഉദാഹരണം പാതി തകർന്ന പഴയ കമ്മ്യൂണിറ്റി ഹാൾ ആണ് ഇത് ഇവിടെ ജീവിക്കുന്നത് തീരെ സുരക്ഷിതമല്ല ഈ മുസ്ലിം പള്ളി പുതുക്കിയതാണ് മതപരമായ കാരണങ്ങൾ കൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ അത് പഴയത് പോലെ പുതുക്കിപണിഞ്ഞത് അവർ ഇവിടെയും ഭൂജ് ലും പെട്ടെന്ന് തന്നെ പള്ളി പണിഞ്ഞു നാശം സംഭവിച്ച പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് ഭൂകമ്പം നടന്ന ഉടനെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നതിന്റെ ഒരു ദൃശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായത് എന്നും ഏതുതരം വസ്തുവകകളിലുംനിർമ്മിത പരിസ്ഥിതിയിലും ആണ് നാശനഷ്ടമുണ്ടായത് എന്നും നമുക്ക് നോക്കാം ഇത് തകർന്ന ഇൻഡസ്ട്രിയൽ ഗോഡൌൺ ആണ് ഇത് ഒരു വിഭാഗം ആൾക്കാരുടെ ഉപജീവനം മാർഗം ആണ് അത്കൊണ്ട് തന്നെ അവരുടെ ജോലി യെ അത് സാരമായി ബാധിക്കുക തന്നെ ചെയ്തു വര്ഷങ്ങളോളം ജോലി ഇല്ലാതെ അവർ ബുദ്ധിമുട്ടി ഇതിനെ ഒരു തകർന്ന ഗോഡൌൺ അല്ലെങ്കിൽ ഒരു കെട്ടിടം എന്ന് നിസാരമായി കാണരുത് അവിടെ ജോലിചെയ്യുന്ന പാവപ്പെട്ടവരുടെ ഉപജീവനത്തെ ആണ് ഈ തകർച്ച പരോക്ഷമായി ബാധിച്ചത് ചരിത്രപരമായ കെട്ടിടങ്ങളും അവിടെ തകർന്നിരുന്നു അവയുടെ ബ്രാക്കറ്റുകളും റെയിലിങ്ങുകളും തകർന്നു വീണു അതിനാൽ അത് തീരെ സുരക്ഷിതമല്ലാതായി ഇത് പൈതൃകവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത്കൊണ്ട് തന്നെ ദുരന്ത പശ്ചാതലത്തിൽ പൈതൃകത്തെ കുറിച്ചുംആയുത്ഥയ 945 കിരുണ തുടങ്ങിയ നിരവധി വശങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പോലെ ഇഷ്ടിക കൊണ്ടുള്ള ഈ കോൺക്രീറ്റ് പരമ്പരാകത വീട് നോക്കിയാൽ ഇതിന്റെ മതിൽ ഉള്ളിലാണ് തകർന്നിരിക്കുന്നത് അതായത് ആന്തരിക തകർച്ച ഇത് യഥാർത്ഥത്തിൽ വാൾ മേക്കപ്പ് നെ കുറിച്ചും ബോണ്ടിങ് നെ കുറിച്ചും എങ്ങനെ ഒരു ചെരിവ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ ഇതുപോലെയുള്ള ഒരു മേൽക്കൂര അല്ലെങ്കിൽ ഒരു മതിൽ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക തീർച്ചയായും പ്രഷർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ എല്ലാം തകർന്ന് വീഴാനുള്ള സാധ്യത യും ഉണ്ടാകുന്നു പക്ഷെ കോർണറുകൾ മതിലിൽ ഉള്ള ഓപ്പണിങ്ങുകൾ ജംഗ്ഷനുകൾ ഇവയൊക്കെയാണ് കേടുപാടുകൾ സംഭവിക്കാവുന്ന നിർണായക സ്ഥലങ്ങൾ കൂടാതെ വാട്ടർ ടാങ്കുകൾ ഇതിലാണ് അവർ വെള്ളം സംഭരിക്കുന്നത് തീർച്ചയായും അതും തകർന്നിരുന്നു അങ്ങനെ ഇഷ്ടിക കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും ഉള്ള വീടുകൾ തകർന്നപ്പോൾ ബോങ്ക അതിജീവിച്ചു ഇത് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അതിജീവനത്തിന്റെ ഉദാഹരണം അതുപോലെതന്നെ ഭൂജിൽ ഒരുപാട് അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അതായത് റോഡുകൾ ചില പാലങ്ങൾ ചില ആശുപത്രികൾ ചില വിദ്യാലയങ്ങൾ അങ്ങനെ നഗരങ്ങളിലെ ഒരുപാട് വലിയ വീടുകൾ അപ്പാർട്ട്മെന്റുകൾ എന്നിവ തകർന്നു എങ്ങനെയാണ് ഭാഗികമായി നാശനഷ്ടങ്ങളുണ്ടായി എന്നതിന് നല്ല ഉദാഹരണമാണ് ഇത് ആശുപത്രി യുടെ തകർച്ച സമൂഹത്തെ സേവിക്കുന്ന മുഴുവൻ ആരോഗ്യ മേഖലയെയും എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുമോ തീർച്ചയായും അത് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെയും സാദാരണക്കാരുടെ ആരോഗ്യത്തെ സേവിക്കുന്നതിലും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതത്തെയും അവതാളത്തിൽ ആക്കി സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർക്ക് ചില ആനുകൂല്യങ്ങളെങ്കിലും ഉണ്ട് സർക്കാർ അവരെ പിന്തുണക്കുമല്ലോ പക്ഷെ ദിവസക്കൂലി യെ മാത്രം ആശ്രയിക്കുന്ന താൽക്കാലിക ജോലിക്കാരുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും ജോലി ഇല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിന് എന്ത് സംഭവിക്കും ഇതൊക്കെയാണ് ചില പ്രധാന ചോദ്യങ്ങൾ കൊടുംവേനലിൽ ഭൂജിലെ എല്ലാ നദികളും വറ്റി പോകുന്നതായി നിങ്ങൾക്ക് കാണാം അങ്ങനെ ആ ഭാഗത്ത് ജലക്ഷാമവും ഒരു വലിയ പ്രശ്നമായി മാറി ഇത് തൊട്ടടുത്തുള്ള വില്ലേജിലെ ഒരു വീടാണ് അവിടെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾ താമസിക്കുന്നു അവിടെ മുഖിയാസ് ചൌഹാൻസ് പിന്നെ മുസ്ലിമുകളും ഉണ്ട് കച്ച് പ്രാദേശത്തു വ്യത്യസ്ത ജാതി ശ്രേണി നിലനിന്നിരുന്നു ഇത് സമ്പന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ഭൂകമ്പത്തിൽ അവ നശിച്ചു ഇപ്പോൾ അവിടെ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്നോ ഫാമിലി കൾ ഒരുമിച്ച് ഒരു വീടിനെ വിഭജിച്ചു താമസിക്കുന്നു ഈ വീട് മുഴുവനായും നശിച്ചിരിക്കുന്നു സാമൂഹ്യശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായ വശങ്ങൾ പരിശോധിച്ചാൽ എന്തുകൊണ്ടായിരിക്കും ഈ വീടുകൾ ഇവിടെ വരമ്പിന്റെ മുകളിലോ ചെറുതായി ഉയർന്ന പ്രദേശത്തിന്റെ മുകളിലോ സ്ഥിതി ചെയ്യുന്നത് ഇതൊരു മലയോര പ്രദേശം അല്ല പക്ഷേ ചെറുതായി ഉയർന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മുഴുവൻ വില്ലേജും കാണാൻ സാധിക്കും ഇവിടെയാണ് പരമ്പരാഗത ഭൂവുടമകളും പണക്കാരും താമസിച്ചിരുന്നത് അത് ആ പ്രത്യേക സമുദായത്തിന്റെ പദവി യുടെ പ്രാധാന്യം കാണിക്കുന്നു അവർ ആ മുഴുവൻ വില്ലേജും നോക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല ചില വില്ലേജുകളിൽ പുറമേനിന്നുള്ള മറ്റൊരു സമൂഹത്തിന്റെ പ്രവേശനം പോലും ശ്രദ്ധിക്കുന്നു അത് അൺ ടച്ചബിൾസിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതാണ് അവിടുത്തെ സ്ഥിതിഈ പ്രാദേശങ്ങളിലെ പ്രഭലമായ സാമൂഹികവ്യവസ്ഥ ഇപ്പോൾ എന്താണ് ഈ വീടുകൾക്ക് സംഭവിച്ചിരിക്കുക താമസിക്കാൻ അവിടെ ഒരു വീട് ഇല്ലാത്ത ആളുകൾക്ക് അതായത് ചില ആളുകൾ കൂടുതൽ ലാഭമുള്ള വേറൊരു സ്ഥലത്തേക്ക് കുടിയേറുന്നു ആ അവസരത്തിൽ വീട് ഇല്ലാത്തവർ സുരക്ഷിതമല്ലാത്ത ഈ വീടുകളിൽ അഭയം തേടുന്നു അവിടെ താമസിക്കുന്നത് സുരക്ഷിതമാണോ എന്നതാണ് ഉയരുന്ന ഒരു പ്രധാന ചോദ്യം കാരണം തുടർചലനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കൂടുതൽ തകർച്ചകൾ ഉണ്ടാവാം ടോയ്ലെറ്റകൾക്കും വാഷ് ഏരിയകൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വില്ലേജിലെ ഈ സമ്പന്ന വിഭാഗത്തെ നോക്കുക അവർക്ക് പുറകിലായി വേറിട്ട ടോയ്ലറ്റ് സംവിധാനവും വാഷിംഗ് സംവിധാനവും ആണ് ഉള്ളത് അതായത് വ്യത്യസ്ത കുടുംബങ്ങളെ മതിലു കൊണ്ട് വേർതിരിച്ചാലും വരാന്തയും ടോയ്ലറ്റും പൊതുവായത് ആയിരിക്കും മൂന്നു കുടുംബങ്ങൾ ഇങ്ങനെ താമസിക്കുന്നുണ്ട് അങ്ങനെ അവർ പിൻഭാഗത്തു ഒത്തുകൂടുന്നു എന്നാൽ അവരുടെ വ്യക്തിഗത അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിട്ടും ഉണ്ട് ഒരു കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഇതു പൂർണ്ണമായും ഒരു യൂണിറ്റായി കണക്കാക്കുന്നു കമ്പം കഴിഞ്ഞ ഉടനെയുള്ള കഥയാണിത് ഇപ്പോൾ ഞാൻ നടരാജ ക്രാന്തി എഴുതിയ ഒരു കവിത വായിക്കാം ഭൂകമ്പത്തിന്റെ ആഘാതത്തിന്റെ നിമിഷത്തിൽ എഴുതിയതായിരുന്നു ഇത് അദ്ദേഹം പറയുന്നു തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾ ദയനീയ നിലവിളി കൂടുതൽ ഒന്നുമില്ല കൂടുതൽ ഒന്നുമില്ല ഇളകുന്ന തറ വീഴുന്ന വാതിൽ കൂടുതൽ ഒന്നുമില്ല കൂടുതൽ ഒന്നുമില്ല നിശബ്ദരായ ആൺകുട്ടികൾ വിജനമായ കളിപ്പാട്ടങ്ങൾ കൂടുതൽ ഒന്നുമില്ല കൂടുതൽ ഒന്നുമില്ല വീണുകിടക്കുന്ന കല്ലുകൾ തകർന്ന എല്ലുകൾ കൂടുതൽ ഒന്നുമില്ല കൂടുതൽ ഒന്നുമില്ല ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്റെ സുഹൃത്ത് നടരാജ ഇത് എഴുതിയത് കുടുംബങ്ങളുടെ വേദനയും യാതനയും വിശദീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആഖ്യാനം എഴുതിയത് അവരുടെ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിച്ചു അവരുടെ ഒഴുക്കിന് എന്ത് സംഭവിച്ചു അവരുടെ സാധനങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് മാതാപിതാക്കൾ മരണപ്പെട്ടപ്പോൾ കുട്ടികൾ അനാഥരായി എങ്ങനെ ആളുകൾ മരണപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ എന്തൊരു ദയനീയവസ്ഥയായിരുന്നെന്നോ അത് അങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം വിദ്യാലയങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കമ്മ്യൂണിറ്റി ഹാൾ പോലെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ കാണിച്ചിരുന്നല്ലോ അതുപോലെതന്നെ ഇതുപോലെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളെയും ഈ ദുരന്തം ബാധിച്ചിരുന്നു ഒരുപാട് വിദ്യാലയങ്ങളും കമ്മ്യൂണിറ്റി ഹാളുകളും കമ്മ്യൂണിറ്റി സെന്ററുകളും തകർന്നു തരിപ്പണമായി അതായത് കുട്ടികൾക്ക് പിന്നീട് വിദ്യാലയങ്ങളിൽ പോകാൻ ഭയമായി അങ്ങനെ ഏകദേശം ഒരുവർഷത്തോളം വിദ്യാലയങ്ങൾ നിർത്തിവെച്ചു അപ്പോൾ എന്തായിരിക്കും വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ സമൂഹത്തെ മുഴുവൻ പ്രത്യേകിച്ച് കുട്ടികളെ എങ്ങനെ എൻഗേജ്ഡ് ആക്കാൻ കഴിയും അതും പ്രാധാന്യം ഉള്ളതാണല്ലോ സ്കൂൾ വിദ്യാഭ്യാസത്തിന് എന്ത് സംഭവിച്ചിരിക്കും എവിടെയാണ് സ്കൂളിന് വേണ്ടിയുള്ള സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈ അവസരത്തിൽ ഒരുപാട് NGO കൾ മുൻപോട്ട് വന്നു ഒരുപാട് വികസന ഏജൻസികളും അവർ വിവിധ തരത്തിൽ സഹകരിച്ചു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അവരിൽ ചിലർ സ്പോൺസർ ചെയ്തു മറ്റുചിലർ സ്വതന്ത്രമായി പ്രവർത്തിച്ചു ചിലർ പങ്കാളിത്തത്തോടെ സഹകരിച്ചു ഇത് ചില ഉദാഹരണങ്ങൾ ആണ്ഒരു ക്ലാസ്സ്റൂം നിങ്ങൾക്ക് കാണാം ഇതു ഒരു സ്കൂൾ ആണ് ഒരു താൽക്കാലിക സ്കൂൾ സ്കൂൾ ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസ സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതായത് സമീപപ്രദേശങ്ങളിൽ നിന്നെങ്കിലും അത്യാവശ്യ വിദ്യാഭ്യാസം ലഭിക്കുമല്ലോ അവിടെ സ്കൂൾ ക്രമീകരിക്കാൻ ഒരു തരം ലിനീയർ പാറ്റേർൺ ക്രമീകരിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് മുള കൊണ്ടുള്ള ക്ലാസ്സ്റൂമിന്റെ ഉൾവശം ഇപ്പോൾ ഉയരുന്ന ചോദ്യം ശരിയാണ് അത് നല്ലതാണ് കുറഞ്ഞത് മുള എങ്കിലും വിതരണം ചെയ്തിട്ടുണ്ടല്ലോ മുള കൊണ്ട് നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ് ആദ്യം ഒരുതരം പാനൽ ഉണ്ടാക്കി സ്റ്റഡുകൾ ഉണ്ടാക്കണം എന്നിട്ട് തണ്ടുകൾ കൊണ്ട് ഘടന ഉണ്ടാക്കണം എന്നിട്ട് അവ കെട്ടണം ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നത്ഇത് ഗ്രേവൽ ആണ് ഗ്രേവൽ നിങ്ങൾക്ക് അറിയാമല്ലോ മുകളിൽ അവർ ഗ്രേവൽ ഇടുന്നു അതിനാൽ മഴ വന്നാലും അഴുക്കാവില്ല കാരണം അവിടെ വളരെ ചെറിയ ഒരു ലെവൽ വ്യത്യാസമേ ഉള്ളൂ കഷ്ടിച്ച് 5cm to 10cm മാത്രമേ ലെവൽ വ്യത്യാസം ഉള്ളൂ അതിനാൽ മഴ ഉണ്ടായാലും വെള്ളം ഒഴുകാൻ കഴിയുന്ന തരത്തിൽ ഗ്രേവൽ ഇടുന്നു എന്നിട്ട് അവിടെ ഉള്ള ആളുകൾ തന്നെ അതായത് പ്രാദേശിക ടീച്ചേഴ്സ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ള പ്രാദേശിക ബിരുദധാരികൾ കുട്ടികളെ പഠിപ്പിക്കാൻ സ്വയം സന്നദ്ധരായി മുമ്പോട്ട് വരുന്നു അത്പോലെ തന്നെ ചില സ്കൂൾ ഓഫീസുകളും ചില ഓഫീസ് കെട്ടിടങ്ങളും ലാമിനേറ്റഡ് പേപ്പർ പൈപ്പിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ടാഡോ ആന്റോTadao Andosയുടെ ജോലിയിൽ നിങ്ങൾക്കത് കാണാം പല താൽക്കാലിക ഷെൽട്ടറുകളും ഇങ്ങനെ ലാമിനേറ്റഡ് പേപ്പർ പൈപ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ സമയത്ത് അതായത് 2002 ൽ അതിന്റെ ചെലവ് ഒരു യൂണിറ്റിന് ഏകദേശം 27000 രൂപ ആയിരുന്നു അത് വളരെ ന്യായമായ തുകയാണ് അതേസമയം ഡൈനിങ് ഹാൾ മുഴുവനായി നിർമ്മിച്ചിരിക്കുന്നത് ക്യാൻവാസ് മെറ്റീരിയൽ കൊണ്ടാണ് അതിന്റെ ചിലവ് ഏകദേശം പതിനെട്ടായിരം മെറ്റീരിയലാണ് പക്ഷേ അതിന്റെ ഡ്യൂറബിലിറ്റി നോക്കിയാൽ മഴ വന്നാൽ തീർച്ചയായും അത് അത്ര നല്ലതല്ല എന്നാലും ഇത് ക്യാൻവാസിനെക്കാളും കുറച്ചുടെ നല്ലതാണ് അവർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു മതിലിന്റെ ഘടന ഉണ്ടാക്കി അതിന്റെ മേലെ മാറ്റ് ഇടുന്നു അതായത് ടർപൊളിൻ ഷീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വാട്ടർപ്രൂഫ് മെറ്റീരിയൽ കൊണ്ടുള്ളത് അങ്ങനെ അത് യഥാർത്ഥത്തിൽ ഒരു മേൽക്കൂര പോലെ സംരക്ഷിക്കുന്നു കൂടാതെ ചില ഹോട്ടലുകൾ കാരണം ഒരുപാട് എൻജിഒകൾ മുമ്പോട്ടു വന്നിട്ടുണ്ടല്ലോ അവർ എവിടെ താമസിക്കും ഒരു പാട് ഓഫീസുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്കാരണം കുറേ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാലോ ഈ ജോലിയിൽ കുറേ ചലനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അവർ ചിലതരം പാർപ്പിട രീതികൾ വികസിപ്പിച്ചെടുത്തുഅതായത്അവിടെ അവർ ശിലാഭിത്തിയിൽ ക്രമരഹിതമായ അവശിഷ്ടങ്ങൾ കൊണ്ട് സിൽ ലെവൽ വരേ നിർമ്മിച്ചു ഇത് ഒരു തരം മരം അഥവാ ടിൻ കൊണ്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് പരമ്പരാഗത ടൈൽ പാറ്റേർൺ റൂഫ് ടെറാക്കോട്ട ടൈൽസ് ആണ് അത് വാതിലുകളും ജനലുകളും പ്ലൈവുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം 3 ഫീറ്റ് 6 ഇഞ്ച് സ്റ്റോൺ കൊണ്ടുള്ള ചുവരിൽ നിർമ്മിച്ചിരിക്കുന്ന പ്ലൈവുഡ് മെറ്റീരിയൽ ഈ മുള കൊണ്ടുള്ള നിർമ്മിതി ക്ക് ഏകദേശം 20000 രൂപ ആയി നിങ്ങൾ ചെലവ് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ടെറാകോട്ടക്ക് 27000ഈ മുള ക്ക് 20000 പിന്നെ ക്യാൻവാസിന് ഏകദേശം 18000 രൂപയും ആയിട്ടുണ്ടാവും അതായത് മെറ്റീരിയൽ കൂടുതൽ നല്ലതാവുമ്പോൾ ചെലവും മാറും ഇതിന് ഏകദേശം 12000 ആയി കാരണം ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റോൺ പിന്നെ അതിനകത്തു പ്ലൈവുഡും ആണ് എല്ലാ താൽക്കാലിക നിർമ്മിതിയും രണ്ടു വർഷത്തേക്കാണ് കാരണം ഒരു വർഷം അവർ സ്കൂൾ വിദ്യാഭ്യാസം പൂർണമായും ഉപേക്ഷിച്ചു എങ്ങനെ ചില ബദൽ ഉപജീവന ഐറ്റമുകൾ ഉണ്ടാക്കാം എന്ന ആലോചനയുമായി പല NGO കളും മുമ്പോട്ട് വന്നു തൊഴിൽ ഇല്ലാത്ത യുവജനത യെ എങ്ങനെ പഠിപ്പിക്കാം എങ്ങനെ അവർക്ക് ചില ബദൽ സ്കില്ലുകൾ കൊടുക്കാം അതായത് ടൈലറിങ് തയ്യൽ എംബ്രോയിഡറി അഥവാ എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കൽ അങ്ങനെ അവർ എന്താണ് ചെയ്തത് അവർക്ക് ഒരു സ്റ്റോൺ മതിൽ ഉണ്ട് അവർ ഒരു നിലവറ ഉണ്ടാക്കിപിന്നെ ഒരു ട്രസ്സ് മെറ്റൽകൊണ്ടുള്ള ട്രസ്സ് ചില സ്ഥലങ്ങളിൽ അവർക്ക് ഇത് പോലുള്ള ആസ്ബസ്റ്റോസും ടിൻ ഷീറ്റും ഉണ്ട് ടിൻ ഷീറ്റും അത് പോലെ ഗാൽവനൈസ്ഡ് ഷീറ്റുകളും അവർ മുകളിൽ ആയി ഇടുന്നു ചൂടുള്ള സ്ഥലം ആയതിനാൽ ചില സ്ഥലങ്ങളിൽ ഇന്സുലേഷൻ ഷീറ്റുകളും ഉപയോഗിച്ചിരുന്നു തറ യിൽ ഒരു തരം മാറ്റ് വെച്ചിരിക്കുന്നു ക്ലാസ്സ്റൂമുകളിൽ സാദാരണ മാറ്റാണ് ഇതാണ് കമ്പ്യൂട്ടർ ലാബ് എയർകണ്ടിഷൻ ചെയ്ത കമ്പ്യൂട്ടർ ലാബ് അതിന് സെമി സർക്കുലർ ട്രസ്ഡ് റൂഫ്ആണ് ഇത് വീണ്ടുമൊരു പ്രീഫാബ്രിക്കേറ്റഡ് ട്രസ്ഡ് റൂഫ് ആണ് ഇവിടെ അവർ ഒരു ട്രെയിനിങ് സെന്റർ സ്ഥാപിച്ചു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്ററും ഇതെല്ലാം താൽക്കാലിക വീടുകളെ കുറിച്ചാണ് ഇനി ഈ രണ്ട് വർഷം കൊണ്ട് എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി എന്ന് നോക്കാം എങ്ങനെയാണ് സ്ഥിരമായ ഭാവനത്തിനായി നിക്ഷേപിക്കേണ്ടത് കാരണം ലാൻഡ് അലൊക്കേഷൻ ഇഷ്യൂകൾ ഉണ്ടായി റീലൊക്കേറ്റ് ചെയ്യേണ്ട രീതികൾഎങ്ങനെ സ്ഥലം കണ്ട് പിടിക്കും എങ്ങനെ പൈസ കണ്ടെത്തുംസഹകരണങ്ങൾ എങ്ങനെ നേടാം ഇതൊക്കെ ആയിരുന്നു വലിയ ചോദ്യങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞ പ്രശ്നങ്ങൾ ആയിരുന്നു ഇവയൊക്കെ ഇവിടെയാണ് ഗുജറാത്ത് കേസിൽ സാങ്കേതിക കൈമാറ്റ വിദ്യ സ്വീകരിച്ചത് അതിനാൽ ആരോവിൽ സെന്ററിലെ സെന്റർ ഫോർ ഏർത്ത് യൂണിറ്റ് യഥാർത്ഥത്തിൽ കംമ്പ്രെസ്സ് ചെയ്ത സ്റ്റബിലൈസ് ചെയ്ത റാമ്മഡ് ഏർത്ത് കൈമാറ്റം ചെയ്തു ഇവിടെ ഇതിനെ CSEB എന്ന് വിളിക്കുന്നു കംമ്പ്രസ്സ്ഡ് സ്റ്റബിലൈസ്ഡ് എർത്ത് ബ്ലോക്ക് ഇത് അടിസ്ഥാനപരമായി ഒരു തരം ഇന്റർലോക്കിങ് ബ്രിക്കുകൾ ആണ് ഇത് ആ പേരിലുള്ള ഒരു വർക്ക് ഷോപ്പ് ആണ് മുമ്പ് ഇപ്പോഴത്തെ ഹണ്ണാർശാല കച്ച് നാവ നിർമ്മാൺ അഭിയാൻ എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ അത് ഹണ്ണാർശാല ഫൌണ്ടേഷൻ എന്നറിയപ്പെടുന്നു പക്ഷെ ഇത് ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു അവിടെ ആണ് ഈ ഇന്റർലോക്കിങ് ബ്രിക്കുകൾ ഉണ്ടാക്കിയിരുന്നത് ഇത്തരത്തിൽ ഉള്ള പ്രീഫാബ്രിക്കേഷനുകളും ഉണ്ടാക്കിയിരുന്നു വീടുകൾ പ്രദർശന യൂണിറ്റുകൾ എന്നിവയുടെ ലൈവ് മോഡലുകൾ ഇവിടെ നിർമ്മിക്കുന്നു ചെളിയുടെ അംശത്തിന്റെ അടിസ്ഥാനത്തിൽകളിമണ്ണിന്റെ അംശം 60 to 65 മണൽ 10 to 15കളിമണ്ണ് 15 to 20ചരൽ എല്ലാം ഒരുമിച്ച് ഏകദേശം 10 to 15 ലവണാംശം 1200ppm ൽ കൂടാൻ പാടില്ല pH വാല്യൂ 7 ൽ കുറയാതെ ഉണ്ടാവണം ഇത്തരത്തിലുള്ള സംയോജനത്തിലൂടെയാണ് അവർ ഈ സ്റ്റബിലൈസ്ഡ് എർത്ത് ബ്ലോക്ക് വികസിപ്പിച്ചെടുത്തത് അത് സമചതുരാകൃതിയിൽ ആയിരുന്നു ഇതിനെ ഓറം പ്രെസ്സ് എന്ന് വിളിക്കുന്നു അടിസ്ഥാനപരമായി അവർ ചെയ്യുന്നത് ഇതിന്റെ മിക്സ്ചർ ഉണ്ടാക്കും5 to 7 സിമന്റ് മിക്സ് ചെയ്യുംഎന്നിട്ട് സ്റ്റബിലൈസ് ചെയ്യും ഇത് ഒരു മോൾഡ് പ്രക്രിയ ആണ് അവർ അത് സൂക്ഷിച്ചു വെക്കുന്നു എന്നിട്ട് അവർ അത് പ്രെസ്സ് ചെയ്യുന്നു എന്നിട്ട് ഈ മോൾഡ്സ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഇതാണ് ഇന്റർലോക്കിങ് ബ്രിക്സ് മൂലകളിലും ജംഗ്ഷനുകളിലും ലംബമായ ബലപ്പെടുത്തൽ ഉണ്ടാക്കുന്നതിന് ഇവ വളരെ സഹായകരം ആണ് അങ്ങനെ അവയ്ക്ക് ചില ലംബമായ ബലപ്പെടുത്തൽ ഉണ്ടാവും അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ കപ്ലിങ്ങ് ഉണ്ടാവും എങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ പൊരുത്തപ്പെടണം എന്നിട്ട് പൈപ്പ് കടത്തിവിട്ടോ അഥവാ 8mm റോഡ് കടത്തി വിട്ടോ ബലപ്പെടുത്തണം അവർ ചെയ്യുന്നത് ഒരിക്കൽ ഈ ബ്രിക്സ് ഉണ്ടാക്കിയാൽ അവർ അത് ചൂടാക്കില്ല പകരം അവർ ചെയ്യുന്നത് എന്തെന്നാൽ ഒരു തരം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് അത് 2 ദിവസം കവർ ചെയ്യുന്നു എന്നിട്ട് 21 days അവ നല്ല വെയിലത്ത് വെച്ച് ശരിയാക്കി നേരിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽ ആയി ഉപയോഗിക്കുന്നു കൂടാതെ ചില പ്രീഫാബ് യൂണിറ്റുകളും അവിടെ ഉണ്ട് ഫെറോ സിമന്റ് ചാനലുകൾ പോലുള്ളവ അതിനാൽ നിങ്ങൾക്ക് ഫെറോ സിമന്റ് ചാനലുകൾ ഉണ്ട് അവ മോൾഡുകൾ ആണ് അത് പോലെ ഇവ ടോയ്ലറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആയി ഉപയോഗിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും റൂഫ് സ്ട്രക്ച്ചർ ഇത് ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് ജോഡിയാക്കുന്നുഅപ്പോൾ അത് ഒരുതരം റൂഫ് ആയി രൂപപ്പെടുന്നു ഈ ഭൂകമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല മുമ്പ് ഉണ്ടായ ഭൂകമ്പങ്ങളുടെ അടിസ്ഥാനത്തിലും ഡൽഹി യിലെ ഡെവലപ്പ്മെന്റ് ആൾടർനേറ്റീവ്സ് ഹൈദ്രബാദിലെ നിർമിതി കേന്ദ്ര തുടങ്ങിയ വ്യത്യസ്ത ഏജെൻസികൾ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി ഇതാണ് അവർ സംസാരിക്കുന്ന മറ്റൊരു മോഡൽ പ്രീ കാസ്റ്റ് ഫ്രെയിം ഇവയൊക്കെ ഭവന നിർമ്മാണത്തിലുള്ള പ്രീകാസ്റ്റ് സാങ്കേതിക വിദ്യകളാണ് ഇത് ഡോർ ഫ്രെയിം പോലുള്ള ഒരു ഫ്രെയിം ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് നിർമിതി കേന്ദ്ര ആണ് ഇത് ഹോളോ ബ്രിക്ക് മോഡെലിൽ ഉള്ള റൂഫ് ആണ് അവർ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ഈ ഫ്രേമിൽ ഉൾപ്പെടുത്തുകയും എന്നിട്ട് അത് റൂഫിലേക്ക് മാറ്റുകയും ചെയ്യുന്നു അതിനാൽ ഓരോ പാനലും ഇത്തരത്തിൽ ഉളള ബ്ലോക്കുകളുമായി ഘടിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് അത് ഒറ്റ പാനൽ ആയി ചിട്ടപ്പെടുത്തുന്നു ഇത് ഒരു സാങ്കേതികവിദ്യ ആണ് അവർ മറ്റൊരു സാങ്കേതികവിദ്യ കൂടി വികസിപ്പിച്ചെടുത്തിരുന്നു ഡയഗണൽ ബ്രേസിങും കോൺക്രീറ്റ് ബോളുകളും ഉൾപ്പെട്ട സാങ്കേതികവിദ്യ അതിനാൽ ഭൂകമ്പം ഉണ്ടായാലും കുലുങ്ങിയാലും അവ ഉരുളുന്നു തീർച്ചയായും കെട്ടിടം ചെറുതായി ചെരിയാം അതിനാൽ അധികം കേട്പാടുകൾ ഉണ്ടാവില്ല ഇതും നിർമിതി കേന്ദ്ര വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതികവിദ്യ ആണ് GSDMA യും മറ്റു IS കോഡുകളും നൽകിയ വിവിധ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കച്ച് നവ നിർമാൺ അഭിയാൻ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന നിരവധി മോഡലുകൾ വികസിപ്പിച്ചെടുത്തു അതിൽ ഒന്നാണ് G1 മോഡൽ മറ്റൊന്ന് ഇമിറ്റേഷൻ ഓഫ് ദ ബോങ്ക നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പ്ലിന്ത് ബാൻഡ് ആണ് roof ബാൻഡ് ന്റെ മേലെ സിൽ ബാൻഡ് അധികാരികൾ പുറത്തിറക്കിയ കോഡുകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ബോങ്ക റൂഫിന്റെ നവീകരണം പോലെ ഈ സാങ്കേതികവിദ്യ യുടെ കൈമാറ്റം എങ്ങനെ നടപ്പാക്കാമെന്ന് അവർ തെളിയിച്ചു അവിടെയാണ് അവർ ട്രസ്സിന്റെ അതായത് ഫാബ്രിക്കേറ്റഡ് ട്രസ്സിന്റെ സഹായത്തോടെ ഒക്ടഗണൽ കോണിക്കൽ റൂഫിനെ കുറിച്ച് സംസാരിക്കുന്നത് കൂടാതെ ഹെമിസ്ഫെരിക്കൽ ദോംപോലുള്ള ചില സർക്കുലർ മോഡലുകൾ ഇത് മുഴുവനായും ചെയ്തിരിക്കുന്നത് ബ്രിക്കുകൾ കൊണ്ടാണ് അതായത് മഡ് ബ്ലോക്കുകൾ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഫെർറോ സിമന്റ് ചാനലുകൾ അവ എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചല്ലോ ചില വീടുകൾ അതിൽ നിർമ്മിച്ചിട്ടുണ്ട് ചില ടോയ്ലറ്റുകളും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പ്രീകാസ്റ്റ് ടോയ്ലറ്റുകൾ ആണ് ടോയ്ലറ്റ് യൂണിറ്റുകൾ ഇവയാണ് ചില ഇടപെടലുകൾ ചില ആശയങ്ങൾ കാരണം ദുരന്തത്തിന് ശേഷം ഇവിടം വ്യത്യസ്ത ആശയങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒരു പരീക്ഷണശാലയായി മാറി മുള പോലെയുള്ള ചില പരമ്പരാഗത സാങ്കേതിക വിദ്യ യുടെയും ചില സംയോജനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്ങനെ മുള ഉപയോഗിക്കാമെന്നും അത് ഷെൽട്ടർ ഫോമുകളിലും താച്ചിലും ഉൾപ്പെടുത്താമെന്നും പരീക്ഷിച്ചു അങ്ങനെ ഈ CSEB ബ്ലോക്കുകളുടെയും ഇടിച്ച ഭൂമിയുടെയും മേഞ്ഞ മേൽക്കൂരയുടെയും ഒരു സംയോജനം അവിടെ ഉണ്ടായി അങ്ങനെ വ്യത്യസ്തമായ ജോലികൾ ഉണ്ടായി അത്പോലെത്തന്നെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഭൂകമ്പ പ്രതിരോധ ഘടനക്ക് പേര് കേട്ട ജിയോഡെസ്റ്റിക് ഡോമുകളുടെ ചില യൂണിറ്റുകൾ അവർ നിർമ്മിക്കുന്നതാണ് അവയ്ക്ക് ഏരിയ ചെറുതായിരിക്കും എന്നാൽ കൂടുതൽ വോളിയം ഉണ്ടായിരിക്കും ഇത് നിർമ്മിതി കേന്ദ്ര നിർമ്മിച്ച ഒരു ഭൂകമ്പ പ്രതിരോധ മോഡലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ സർക്കുലർ ബോളുകൾ ഉള്ള ഡയഗണൽ ബ്രേസിങ് ആയിരിക്കും അടിത്തറയിൽ അവിടെ കെട്ടിടത്തിന് ശക്തികളെ താങ്ങാൻ കഴിയും ഭൂകമ്പ ശക്തികളെയും പിന്നെ അതേ കമ്മ്യൂണിറ്റി ഹാൾപൈക്കവില്ലേജിലെ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാത്തോലിക് റിലീഫ് സർവീസസ് ഏറ്റെടുത്തു നിങ്ങൾക്ക് ഇവിടെ കാണാം തകർന്ന മുഴുവൻ കമ്മ്യൂണിറ്റി ഹാൾ CSEB ബ്ലോക്കുകളും മംഗ്ലൂർ ടൈലുകളും ഉപയോഗിച്ച് അവർ പുനർനിർമിച്ചു അതുപോലെതന്നെ ആ വീടുകൾ നിങ്ങൾക്ക് കാണാംഅവർ ഒരു വീടിന് ഏകദേശം 35 സ്ക്വയർ ഏരിയ നൽകി അവിടെ ചെറിയ ഒരു തുറസ്സായ സ്ഥലമുണ്ട് ചിലപ്പോൾ മുമ്പത്തെ വാതിലുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നു ഇവിടെ ഈ വില്ലേജിൽ അവർ ചെയ്തത് എന്തെന്നാൽ അവർ ഒരു ലേഔട്ടും നൽകിയില്ല പകരം അവർ ചെയ്തത് പഴയ വീട് ഉള്ളിടത്ത് വീടിനോട് ചേർന്ന് പുതിയത് പണിതു അതിനാൽ സ്ട്രക്ച്ചർ ലേഔട്ട് പഴയത് പോലെ തന്നെ നിലനിന്നു ഇങ്ങനെ ആണ് ഇപ്പോൾ ക്രോസ്സ്റോഡ് ഇത് പോലെ ആണെന്ന് നിങ്ങൾക്ക് കാണാം അവിടെ കമ്മ്യൂണിറ്റി സെന്റർ മധ്യത്തിൽ ആയിരിക്കും ക്രമേണ പിന്നീട് കാര്യങ്ങൾ വികസിച്ചു പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതേ സ്ഥലത്തു പുനർ നിർമ്മിച്ച ഒരു വില്ലേജിനെ കാഴ്ചയാണ് അതിന ടുത്തായി അവർ താൽക്കാലികമായി താമസിച്ചിരുന്ന ഒരു ചെറിയ ബോങ്കാസ് നിങ്ങൾക്ക് കാണാം കാരിറ്റാസ് KVT വികസിപ്പിച്ചെടുത്ത ചില ഭൂകമ്പ പ്രതിരോധ മോഡലുകളും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവ ഈ സ്ഥലങ്ങൾക്ക് യോജിച്ചതായിരുന്നില്ല അവ ഏകീകൃതവുംനിലവാരമുള്ളതുമായ കോൺക്രീറ്റ് മോഡലുകൾ ആണ് പക്ഷെ ഈ വീടുകളിൽ താമസിക്കാൻ ജനങ്ങൾ വിമുഖത കാണിച്ചു ഞാൻ അവരുമായി അഭിമുഖം നടത്തിയപ്പോൾ അവിടെ താമസിക്കാൻ അവർ തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞു 9 റീച്റ്റർ സ്കേൽവരേ എങ്കിലും ചെറുക്കാൻ കഴിയുന്ന 100 കോടി രൂപയുടെ ഹോസ്പിറ്റൽ പദ്ധതികൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ അതിന്റെ പ്രതിരോധ രൂപത്തിലേക്ക് പുരോഗമിക്കാൻ ശ്രമിക്കുന്നു എന്തായിരുന്നു ഈ സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടം ആളുകൾക്ക് ഒരു NGO നൽകിയ വീട് കാണാൻ കഴിയും അതിനു തൊട്ടടുത്തായി അവർ തന്നെ കല്ലുകൾ ഉപയോഗിച്ച് ഒരു വീട് പണിതു കല്ല് കൊണ്ടുള്ളത് സുരക്ഷിതമല്ല എന്ന് അവർക്കറിയാം പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്കായി അവർ തന്നെ അത് പണിതു ഇവിടെയാണ് സമൂഹത്തിന് എന്താണ് വേണ്ടതെന്നും എന്താണ് സമൂഹം ആവശ്യപ്പെടുന്നത് എന്നും നമ്മൾ പഠിക്കേണ്ടത് കല്ലുകൊണ്ട് വീടുകൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നും ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ എങ്ങനെ കുറച്ചു കൂടി നല്ല രീതിയിലും ശരിയായ രീതിയിലും അത് നിർമ്മിക്കാമെന്നും അവർക്ക് മാർഗ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്തൊക്കെ കോഡുകളാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാമോ ഇവിടെയാണ് കമ്മ്യൂണിറ്റിക്ക് സ്വയം കെട്ടിപ്പടുക്കുന്നതിനുള്ള ചില സപ്പോർട്ട് സിസ്റ്റങ്ങളിൽ സാങ്കേതികത്വം അഭിസംബോധന ചെയ്യേണ്ടത് ഇവയൊക്കെയാണ് ഗുജറാത്ത് ഭൂകമ്പത്തിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ ഇതിന് ശേഷം സുനാമിയും സുനാമി കഴിഞ്ഞ ഉടനെ കശ്മീർ ഭൂകമ്പവും നമുക്ക് നോക്കാനുണ്ട് കശ്മീർ ഭൂകമ്പത്തിന്റെ സമയത്ത് ഞാൻ UK യിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്റെ പോസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെയായിരുന്നു കാശ്മീർ ഭൂകമ്പം ഒരുപാട് ഏജൻസികൾ അതിനായി പ്രവർത്തിച്ചു അവർ ദ്രുത സാങ്കേതികവിദ്യ തേടുകയായിരുന്നു വേഗത്തിൽ വീടുകൾ പണിയുന്നതിന് അതിനാൽ ആണ് ആ സമയത്ത് UNWTO ഞങ്ങളുടെ കമ്പനിയെയും സമീപിച്ചത് ഞാൻ യഥാർത്ഥത്തിൽ ബ്രിട്ടനിൽ വെച്ച് ചിലതരം പ്രീഫാബ് വീടുകൾ ഡിസൈൻ ചെയ്യുകയായിരുന്നു ഫ്രെയിം ഹൌസുകൾസെറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് ഒരു ഫ്ലാറ്റ് പാക്ക്സമീപനം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പാനലുകൾ ആണ് ഇത് കൃത്യമായി POK യിൽ നിർമ്മിച്ച വീടല്ല പക്ഷെ മറ്റൊരിടത്തു നിർമ്മിച്ചു അതിന്റെ ഫോട്ടോഗ്രാഫുകൾഎന്റെ കയ്യിൽ ഇല്ല അതിനാൽ ഞാൻ സമാനമായ മറ്റു മോഡലുകൾ കാണിക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് ട്രസ്സുകൾറൂഫുകൾ എല്ലാം ഒരു ഫ്ലാറ്റ് പാക്ക് സമീപനമാണ് യൂണിഫോം സ്റ്റാൻഡേഡൈസ്ഡ് ഫോർമാറ്റിൽ അതിനാൽ നമുക്ക് ഡിസൈൻ വഴി മാലിന്യം കുറക്കാം അത് ഫാക്ടറിയിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തുPOK യിലേക്ക് ഷിപ് ചെയ്തു പിന്നീട് ഞങ്ങൾ കുറച്ചു തൊഴിലാളികളെ അയച്ചു അവർ അത് സ്പോട്ടിൽ സ്ഥാപിക്കുകയും ചെയ്തു ഇവിടെയാണ് ഡസ്ക്കിൽ ഇരിക്കുന്ന ഡിസൈനർ എന്ന വില്ലൻ വേഷം ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ഒരിക്കലും സൈറ്റിലേക്ക് പോയിട്ടില്ല ഒരിക്കലും ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിട്ടില്ലആ സന്ദർഭത്തെ എനിക്ക് പരിചയമില്ല ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല അവരുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല എന്താണ് അവരുടെ ജീവിത മാർഗം എന്നും എനിക്കറിയില്ല ഇവിടെയാണ് ഞാൻ ഒരു വില്ലൻ റോൾ കളിക്കുന്നത് ഇവിടെ ഞാൻ കൂടുതൽ ഗവേഷണത്തിലേക്ക് പോയി യഥാർത്ഥത്തിൽ എങ്ങനെ ഗവേഷണം നടത്താം എന്തൊക്കെയാണ് വിടവുകൾ ഡെവലപ്മെന്റ് ഗ്രൂപ്പുകളും ഗുണഭോക്താക്കളുടെ ഗ്രൂപ്പുകളും തമ്മിലുള്ള വിടവുകളിൽ എങ്ങനെ അനുരഞ്ജനം നടത്താം കാശ്മീർ ഭൂകമ്പത്തിന് മുന്നേ നമുക്ക് സുനാമി ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ബണ്ട അജേഹ്നശിപ്പിച്ച ഭീമൻ സുനാമി യാണ്2004 ൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായ സുനാമി ദ ബോക്സിങ് സുനാമി ഇത് തമിഴ്നാടിനെയും ബാധിച്ചിരുന്നു തമിഴ്നാടിന്റെ തെക്കേ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് നാഗപട്ടണം എന്ന സ്ഥലത്തെ കൂടാതെ ഗൂഡല്ലൂറിനെയുംതമിഴ്നാടിന്റെ കിഴക്കൻ തീരത്തെയും പക്ഷെ എപ്പിസെന്റർ സുമാട്ര യുടെ അടുത്തായിരുന്നു ഏതാണ്ട് ഈ ദിശയിലേക്കായിരുന്നു തിരമാലകൾ സഞ്ചരിച്ചിരുന്നത് സുനാമി കഴിഞ്ഞ ഉടനെതന്നെ ഞാൻ ആ സ്ഥലംസന്ദർശിച്ചിരുന്നു ഭക്ഷ്യസുരക്ഷയായിരുന്നു അവിടുത്തെ പ്രധാന പ്രശ്നം എങ്ങനെ അവരുടെ റേഷൻ കിട്ടും കാരണം അവരെല്ലാം ദുരിതാശ്വാസ ഘട്ടത്തിൽ ആയിരുന്നു അവർ എവിടെയെങ്കിലും സ്ഥിരതാമസമാക്കുമ്പോൾ ദൈനം ദിന ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെയാണ് എല്ലാ റേഷൻ ഷോപ്പും ക്യു കൊണ്ട് നിറഞ്ഞത് സുനാമി കാരണം അടിസ്ഥാന സൌകര്യങ്ങൾ തകർന്നതിനാൽജലക്ഷാമം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടി കുടിവെള്ളം അവർക്ക് എവിടുന്ന് കിട്ടും അവരുടെ ഉപജീവനം തന്നെ ഭീഷണിയിലായി അവിടെയാണ് മത്സ്യതൊഴിലാളികളുടെ സജ്ജീകരണം ഉണ്ടായത് നിങ്ങൾക്ക് ബോട്ട് മുതലാളിമാർ ഉണ്ട് മത്സ്യതോഴിലാളികൾ ഉണ്ട് കച്ചവടക്കാർ ഉണ്ട് എല്ലാരും പരസ്പരം സഹകരിച്ചു പ്രവർത്തിച്ചു അവരുടെ പരമ്പരാഗത വീടുകൾഅവരുടെ തദ്ദേശീയമായ അറിവുകൾ വെച്ചാണ് അവർ വീടുകൾ ഓറിയന്റ് ചെയ്യുന്നത് കാലാവസ്ഥപരമായി നോക്കിയാൽ അവ കാര്യക്ഷമമായതാണ് അവ അവരുടെ ഉപജീവന ആവശ്യങ്ങൾക്ക് എങ്ങനെ അനുയോജ്യമാണ് വ്യത്യസ്ത തരം വീടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് തരംഗമ്പാടി യിൽ ആണ് ഇവിടെ വീടുകൾക്ക് വ്യത്യസ്ത ലേഔട്ടുകൾ ആണ് ജോയിന്റ് ഫാമിലിവീട് ന്യൂക്ലിയർ ഫാമിലി വീട് എന്നിങ്ങനെ പിന്നെ അവരുടെ സ്ഥലങ്ങൾ അവ എങ്ങനെയൊക്കെ നശിച്ചു അടിസ്ഥാന സൌകര്യങ്ങൾക്ക് ഭീമമായ കെടുപാടുകൾ ഉണ്ടായി നിങ്ങൾ ഈ തെളിവുകൾ നോക്കുക ഈ സ്ഥലങ്ങളിലേക്ക് ശരിയായ രീതിയിൽ വിവരങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ തിരമാലകൾ മുഖ്യധാര യിൽ അതായത് പ്രധാന ഭൂപ്രദേശത്തു എത്താൻ 180 മിനിറ്റുകൾ അതായത് ഏകദേശം 3 മണിക്കൂറുകൾ എടുത്തിരുന്നു എന്ന് ഈ തെളിവുകളിൽ നിന്ന് മനസിലാക്കാം അതിനാൽ ആ വിവരം ശരിയായ രീതിയിൽ കൈമാറിയിരുന്നെങ്കിൽ നമുക്ക് ഒരു പാട് ജീവിതങ്ങൾ രക്ഷിക്കാൻ കഴിഞ്ഞേനെ ചില പ്രധാന സ്വത്തുക്കൾ എങ്കിലും സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു എല്ലായ്പ്പോഴും ഒരു ആശ്വാസ ഘട്ടമുണ്ട്കുറച്ചു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുനരധിവാസ ഘട്ടമുണ്ട് അവസാനത്തേത് പുനർനിർമ്മാണ ഘട്ടമാണ് ഗവണ്മെന്റിൽനിന്നും ഇന്റർനാഷണൽ NGO കളിൽ നിന്നുംലോക്കൽ NGO കളിൽ നിന്നും ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്നും ധാരാളം നടന്മാരും ഇതിന് വേണ്ടി പ്രവർത്തിച്ചു ഞാൻ സംസാരിക്കുന്നത് ട്രാൻസിഷണൽ ഷെൽട്ടറിനെ കുറിച്ചാണ് അവർ ചെയ്തത് എന്തെന്നാൽതാമസിക്കാനുള്ള സ്ഥലം അവർക്ക് ഉടനടി വേണമായിരുന്നു ഒരു പാട് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടിരുന്നു ഞാൻ ദേവാനംപട്ടണം എന്ന ഏറ്റവും നീളം കൂടിയ മത്സ്യതൊഴിലാളി വില്ലേജ് സന്ദർശിച്ചപ്പോൾ കുറേ ചോദ്യാവലികളുംഅർദ്ധഘടനാപരമായ അഭിമുഖങ്ങളും എടുത്തിരുന്നു അവർക്ക് പെട്ടെന്ന് തന്നെ ടിൻ ഷീറ്റുകൾ കിട്ടി അവർ അവിടെ രണ്ടു വർഷത്തോളം താമസിച്ചു ഇവിടെ നിങ്ങൾ കാണുന്നത് ടിൻ ഷീറ്റുകളുടെ ബാരക്കുകൾ ആണ് സത്യത്തിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളിലും andaman and Nicobar Islands ആദിവാസി സമൂഹങ്ങൾക്കും ഇതേപോലുള്ള വീടുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ അവർ അത് നിരസിച്ചു അവർ ഈ വീടുകൾ ബഹിഷ്കരിച്ചു ഇവിടെയാണ് മെറ്റീരിയലും പ്രധാനപ്പെട്ടതാവുന്നത് തീർച്ചയായും ഇത് എത്തിക്കാൻ എളുപ്പമാണ് പക്ഷേ ഒരാൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇവിടെ കുറച്ച് മാസങ്ങൾ താമസിക്കേണ്ടതുണ്ട് എങ്ങനെ അതിൽ പ്രവർത്തിക്കും എന്നാണ് ദുരന്തത്തിനുശേഷം അടിസ്ഥാന സൌകര്യങ്ങൾ ടോയ്ലെറ്റുകൾഎല്ലാം തകർന്നു എവിടെയാണ് അവർ ടോയ്ലറ്റുകളിൽ പോവുക എവിടെ അവർക്ക് കുടിവെള്ളം ലഭിക്കും ഇവിടെയാണ് ആളുകളുടെ പ്രൊഫഷണൽ ചിന്തകൾ ഒന്നിച്ചത് അവർ ചില തിരഞ്ഞെടുപ്പുകൾ കാണിക്കാൻ തുടങ്ങി അതേ ഞങ്ങൾ ഈ ഓപ്ഷൻ തരുന്നു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം അങ്ങനെ അവർ തീരുമാനിച്ചത് ഞങ്ങൾ നടപ്പിലാക്കിക്കൊടുക്കാൻ ശ്രമിച്ചു അങ്ങനെ വ്യത്യസ്ത പ്രക്രിയകൾ ട്രാൻസിഷൻ സ്റ്റേജിൽ പിന്തുടരാൻ തുടങ്ങി പക്ഷേ ഇതായിരുന്നില്ല യഥാർത്ഥ വെല്ലുവിളി നിർമ്മാണ രൂപത്തിൽ മാത്രം പ്രശ്നത്തെ ചുരുക്കാൻ പാടില്ല ഈ ട്രാൻസിഷൻ ഘട്ടം ക്രമേണ സ്ഥിരമായ ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് നോക്കേണ്ടതുണ്ട് അവിടെ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ രണ്ടു വർഷത്തിനുള്ളിൽ എങ്ങനെ ഈ മെറ്റീരിയൽ പുനരുപയോഗിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസം സമൂഹത്തിന്റെ ഉപജീവനം അവർ എങ്ങനെ ഇതൊക്കെ പുനർനിർമിക്കും ഇതൊക്കെയാണ് വിദ്യാർഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില തെളിവുകൾ ട്രാൻസിഷൻ ഘട്ടത്തിലും ചില വെല്ലുവിളികൾ ഉണ്ട് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു